ഈ സെഷനിൽ നമുക്ക് സ്രോതസ്സ് പരിവർത്തനത്തെ കുറിച്ചു ചർച്ച ചെയാം സ്രോതസ്സ് പരിവർത്തനം എന്നാൽ എന്താണ് നമ്മൾ മുൻപത്തെ ലെക്ചറിൽ സീരീസ് പാരലൽ സംഘം ചേരലിനെകുറിച്ചു ചർച്ചചെയ്തപ്പോൾ നമ്മൾ സ്റ്റാർ ഡെൽറ്റ പരിവർത്തനത്തെ കുറിച്ചും ചർച്ച ചെയ്തതാണ് അവിടെ നമ്മൾ കണ്ടതാണ് ഈ രണ്ട് സാങ്കേതികത്വം വഴിയായി നമുക്ക് വളരെ വേഗത്തിൽ തന്നെ സർക്യൂട്ടുകൾ പരിഹരിക്കുവാൻ സാധിക്കും സീരീസ്പാരലൽ സംഘം ചേരലിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഘടകങ്ങൾ സീരീസോ പാരല്ലെലോ ആണെങ്കിൽ വോൾടേജ് ഡിവിഷനോ കറണ്ട് ഡിവിഷനോ ഫലിക്കുമെന്ന് സമാനമായി സ്റ്റാർ ഡെൽറ്റ പരിവർത്തനതിൻറെ ലെക്ച്ചറിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് സർക്യൂട്ട് വളരെ സങ്കീർണ്ണമായി തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർൻറെയോ ഡെൽറ്റ യുടെയോ മാതൃക തിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ സർക്യൂട്ട് ലളിതമാകുവാൻ വേണ്ടി സ്റ്റാർ ഡെൽറ്റ പരിവർത്തനം പരീക്ഷിക്കുവാൻ നോക്കാവുന്നതാണ് അപ്പോൾ സ്രോതസ്സ് പരിവർത്തനത്തിനെ തുല്യത എന്ന ആശയം കണക്കാക്കുന്ന ഉപകരണം ആയിട്ട് കരുതാം തുല്യത എന്നാൽ എന്ത് നമുക്ക് ആദ്യം തുല്യതാ സർക്യൂട്ട് എന്താണെന്ന് മനസ്സിലാക്കാം തുല്യ സർക്യൂട്ട് എന്നാൽ അതിൻറെ വോൾട്ടേജ് കറൻറ് വിശേഷലക്ഷണങ്ങൾ മൌലികത്വമുള്ള സർക്യൂട്ട് ആയി അനന്യം ആയിരിക്കും അതായത് V I വിശേഷലക്ഷണം അനന്യം ആയിട്ടുള്ള രണ്ട് സർക്യൂട്ടുകളിൽ നമുക്ക് പറയാം ഒന്ന് മറ്റൊന്നിനോട് തുല്യമാണെന്ന് സർക്യൂട്ട്ൻറെ ഈ സവിശേഷത ആണ് തുല്യത എന്ന് വിളിക്കപ്പെടുന്നത് സ്രോതസ്സ് പരിവർത്തനം എന്നാൽ എന്ത് ഒരു സീരീസ് റെസിസ്റ്റർ ഉള്ള വോൾട്ടേജ് സ്രോതസ്സ്നെ ഒരു പാരലൽ റെസിസ്റ്റർ ഉള്ള കറണ്ട് സ്രോതസ്സ് ആയി മാറ്റിവെയ്ക്കുന്ന ഒരു പ്രക്രിയ ആണ് സ്രോതസ്സ് പരിവർത്തനം അല്ലെങ്കിൽ നേരെ മറിച്ചും അതായത് പാരലൽ റെസിസ്റ്റർ ഉള്ള കറണ്ട് സ്രോതസ്സ് ഒരു സീരീസ് റെസിസ്റ്റർ ഉള്ള വോൾട്ടേജ് സ്രോതസ്സ് ആയി മാറ്റിവയ്ക്കാം ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം നോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ മെഷ് കറണ്ട് സമ്പ്രദായത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സമവാക്യങ്ങൾ കേവലം സർക്യൂട്ട് പരിശോധന വഴി ആണ് എന്ന് നമ്മൾ സർക്യൂട്ട് കാണുന്നു പരിശോധിക്കുന്നു എന്നിട്ട് വിവിധങ്ങളായ മെഷുകളിൽ മെഷ് കറണ്ട് ക്രമീകരിക്കുന്നു എന്നിട്ട് മെഷ് കറണ്ടിൻറെ മൂല്യം കണ്ടു പിടിക്കുന്നു ഇതുപോലെതന്നെ നോഡ് വോൾട്ടേജിൽ നോഡിൽ വോൾടേജ് ക്രമീകരിക്കുന്നു എന്നിട്ട് കിർച്ചഹോഫ് വോൾടേജ് ലോയോ കറണ്ട് ലോയോ ഉപയോഗിച്ച് നമ്മൾ ആ നോഡിലെ വോൾടേജ് മൂല്യം കണ്ടു പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതായിരുന്നു അടിസ്ഥാനപരമായി നമ്മൾ സ്വതന്ത്ര കറണ്ട് സ്രോതസോ സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസോ ആശ്രിത കറണ്ട് സ്രോതസോ ആശ്രിത വോൾട്ടേജ് സ്രോതസോ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സർക്യൂട്ട് ശീഘ്രമായി വിശകലനം ചെയ്യുന്നതിനായി നമുക്ക് വോൾട്ടേജ് പരിവർത്തനവും സർക്യൂട്ട് ലേക്ക് കൂട്ടിച്ചേർക്കാം സർക്യൂട്ട് വിശകലന പ്രക്രിയയുടെ വേഗം കൂട്ടുന്നതിനായി വോൾട്ടേജ് സ്രോതസ്സ് റെസിസ്റ്ററുമായി സീരീസിലോ ഒരു കറണ്ട് സ്രോതസ്സ് റെസിസ്റ്ററുമായി പാരലലിലോ മാറ്റിവയ്ക്കാം അല്ലെങ്കിൽ നേരെ മറിച്ച് ഇപ്പോൾ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ടെർമിനൽ a യുടെയും b യുടെയും നടുവിൽ ഒരു സീരീസ് റെസിസ്റ്റൻസ് R ഉം ഒരു വോൾട്ടേജ് സ്രോതസ്സ് ഉം ഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ സ്രോതസ്സ് പരിവർത്തന സാങ്കേതികത്വം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ബന്ധം നോഡ് a യിൽ ഉണ്ടെങ്കിൽ അത് തന്നെ നോഡ് b യിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിനെ തുല്യതാ സർക്യൂട്ട് ആയി വിവരിക്കാം ഒരു കറണ്ട് സ്രോതസ്സ് റെസിസ്റ്റർ R നോഡ് പാരലൽആയി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം നമ്മുടെ അടുത്ത ചോദ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ എങ്ങനെ ന് അനുശ്രണമായും ന് അനുശ്രണമായും ഉള്ള മൂല്യം നിർണ്ണയിക്കാം ഇല്ലെങ്കിൽ ഈ രണ്ട് റെസിസ്റ്ററുകൾക്ക് എന്ത് സംഭവിക്കും ഇവ രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കുമോ അഥവാ ഇവയ്ക്ക് മാറ്റം വരുമോ ഈ പ്രത്യേകമായ സാങ്കേതികത്വത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതായത് എപ്പോഴൊക്കെയാണ് ഈ പരിവർത്തനം ചെയ്യേണ്ടിവരിക പലവിധ സ്രോതസ്സുകൾക്ക് എങ്ങനെയാണ് അവയുടെ മൂല്യത്തിൽ മാറ്റം വരുതുക അത് വോൾട്ടേജ് സ്രോതസ്സിൽ നിന്നോ കറണ്ട് സ്രോതസ്സിൽ നിന്നോ ആകാം എന്നിട്ട് നമുക്ക് കറണ്ട് സ്രോതസ്സിൻറെ മൂല്ല്യം കണ്ടു പിടിക്കാം അത് വോൾട്ടേജ്ജോ കറണ്ടോ ആകാം അങ്ങനെയെങ്കിൽ നമുക്ക് വോൾട്ടേജ് സ്രോതസ്സിന് തുല്യമായ മൂല്യം കണ്ടുപിടിക്കണം എന്നിട്ട് സീരിസോ പാരല്ലെലോ ആയി ഘടിപ്പിച്ചിട്ടുള്ള റസിസ്റ്റൻസ്ൻറെ മൂല്യവും കണ്ടുപിടിക്കണം ഇപ്പോൾ നമുക്കറിയാം ഇത് തുല്യമാണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കാണിക്കാം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം തന്നെ സ്രോതസ്സ് നിർത്തണം എന്നിട്ട് ടെർമിനൽ എബിക്ക് കുറുകെയുള്ള തുല്യമായ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം നോക്കുക ഈ സർക്യൂട്ടിൽ സ്രോതസ്സ് സ്വിച്ച് ഓഫ് എന്നുവെച്ചാൽ അതായത് നിർത്തുക എന്നുവെച്ചാൽ നമുക്കൊരു വോൾട്ടേജ് സ്രോതസ്സ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് സർക്യൂട്ട് ആക്കുക കൂടാതെ കറണ്ട് സർക്യൂട്ടാണ് ഉള്ളതെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കുക ഇവിടെ ഈ കേസിൽ ab ക്ക് കുറുകെ തുല്യമായ റസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ആക്കിയാൽ നമുക്ക് കാണാം തുല്യമായ റസിസ്റ്റൻസ് R അതുപോലെതന്നെ കറണ്ട് സ്രോതസ്സിൻറെ കാര്യത്തിൽ നമ്മൾ കറണ്ട് സ്രോതസ്സിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കിയാൽ അത് സർക്യൂട്ടിൽ നിന്ന് വിച്ചേദിക്കപ്പെട്ടും കൂടാതെ R ആയിരിക്കും തുല്യമായ റസിസ്റ്റൻസ് അപ്പോൾ നമ്മൾ ഈ രണ്ട് സർക്യൂട്ട്കളെയും വിശകലനം ചെയ്താൽ എന്ത് സംഭവിക്കും ടെർമിനൽ ab ക്ക് കുറുകെയുള്ള തുല്യമായ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നിലനിൽക്കും അതായത് R അങ്ങനെയായിരിക്കും ഈ രണ്ടു കേസുകളിലും ഇനി നമ്മൾ ടെർമിനൽ a യും b യും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിൻറെ മൂല്യം അതായത് a നിന്ന് b ലേക് പ്രവഹിക്കുന്ന കറണ്ട് ഈ സർക്യൂട്ട് ഒരിക്കൽ കൂടി പഴയതുപോലെതന്നെ ആയിരിക്കട്ടെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ a യും b യും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് കറണ്ടിൻറെ മൂല്യം നിർണയിക്കുക അതായത് ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻറെ മൂല്യം ഇത് ആണെന്ന് സങ്കൽപ്പിക്കുക അപ്പോൾ എന്തായിരിക്കും ൻറെ മൂല്യം വളരെ ലളിതമായി ആയിരിക്കും നമ്മൾ എയും ബിയും ഷോർട്ട് സർക്യൂട്ട് ആക്കിയാൽ എന്ത് സംഭവിക്കും ഇത് വകവയ്ക്കാതെ a ഇൽ നിന്ന് b യിലേക്ക് പ്രവഹിക്കുന്ന ഷോട്ട് സർക്യൂട്ട് കറണ്ട് ന് തുല്യമായിരിക്കും ഇവിടെ നമുക്ക് അതേ സർക്യൂട്ട് ഉപയോഗിച്ച് വിവരിച്ചു പറയാം ചെറിയ രൂപത്തിൽ ആണെന്ന് നമ്മൾ ചർച്ച ചെയ്തത് അതായത് തുല്യതാ സർക്യൂട്ട്ൻറെ സവിശേഷതയും അത്പോലെതന്നെ തുടരണം ഇതിൻറെ അർത്ഥം ഷോട്ട് സർക്യൂട്ട് കറണ്ട് രണ്ട് കേസിലും ഒരുപോലെ ആയിരിക്കണം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് കിട്ടുക നമുക്ക് കിട്ടുക ഇവിടെ നിന്ന് നമുക്ക് അറിവ് ലഭിക്കും അതായത് സ്രോതസ്സ് പരിവർത്തനം ചെയ്യേണ്ടിവരുമ്പോൾ എങ്ങനെയാണ് കറണ്ട് സ്രോതസ്സ് വോൾട്ടേജ് സ്രോതസ്സും ആയി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ് സ്രോതസ്സ് പരിവർത്തനം ചെയ്യുമ്പോൾ വോൾട്ടേജ് സ്രോതസ്സും കറണ്ട് സ്രോതസ്സും തമ്മിലുള്ള ബന്ധം എന്ന് അപ്പോൾ നമുക്ക് കിട്ടി കഴിഞ്ഞു വോൾട്ടേജ് ബന്ധവും കൂടാതെ റസിസ്റ്റൻസ് ബന്ധവും റസിസ്റ്റൻസ് ബന്ധം കണ്ടുപിടിക്കാനായി നമ്മൾ ടെർമിനലിന് കുറുകെയുള്ള തുല്യമായ റസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു കൂടാതെ കറണ്ട് സ്രോതസ്സും വോൾട്ടേജ് സ്രോതസ്സും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇപ്പോൾ കണ്ടത് അത് a യും b യും തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആ ഷോട്ട് സർക്യൂട്ട് ടെർമിനലിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിൻറെ മൂല്യം ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഷോട്ട് സർക്യൂട്ട് പകരം ഇതേ ആശയം തന്നെ ഓപ്പൺ സർക്യൂട്ട് ഉപയോഗിച്ച് നിർണയിക്കുക യാണെങ്കിൽ കാരണം സർക്യൂട്ടട്ടിൻറെ വിശേഷണ ലക്ഷണങ്ങളാണ് ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ടും അപ്പോൾ ഓപ്പൺ സർക്യൂട്ട്ൻറെ കേസിൽ എന്ത് സംഭവിക്കും എന്തായിരിക്കും a യുടെയും b യുടെയും കുറുകേയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിരിക്കും a യുടെയും b യുടെയും കുറുകേയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് സമാനമായി ഈ കേസിൽ എന്തായിരിക്കും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിരിക്കും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇതിൽ സവിശേഷതക്ക് അനുസൃതമായി 2 സർക്യൂട്ട്കളും നോക്കി കാണുകയാണെങ്കിൽ രണ്ടും തുല്യമാണെന്ന് കാണാം ആദ്യത്തെ രണ്ടാമത്തെ ആയിട്ട് തുല്യം ആയിരിക്കണം നമുക്ക് കിട്ടുന്ന വേറൊന്നുമല്ല പക്ഷേ അതായത് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ അതേ കാര്യം തന്നെ ഒന്നുകൂടി വേണമെങ്കിൽ ഉറപ്പിക്കാവുന്നതാണ് വിശേഷണ ലക്ഷണം ഷോർട്ട് സർക്യൂട്ട് ആണോ ഓപ്പൺ സർക്യൂട്ട് ആണോ എന്ന് എന്തുകൊണ്ടെന്നാൽ ഒരേ ഔട്ട്പുട്ട്ട്ടാണ് തുല്യതാ സർക്യൂട്ട് നൽകുന്നത് ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് സ്രോതസ്സും കറണ്ട് സ്രോതസ്സും തമ്മിലുള്ള ബന്ധം 2 തുല്യതാ സർക്യൂട്ടുകളിലും സ്ഥാപിച്ചിരിക്കുന്നു നമുക്ക് വോൾട്ടേജ് സ്രോതസ്സും കറണ്ട് സ്രോതസ്സും തമ്മിലുള്ള ബന്ധം ക്രോഡീകരിക്കാം അതായത് or സ്രോതസ്സ് പരിവർത്തനം നമുക്ക് ആശ്രിത സ്രോതസ്സിൽ പ്രയോഗിക്കാം അത് ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ആശ്രിത കറണ്ട് സ്രോതസ്സ് ആകാം പക്ഷേ വളരെ ശ്രദ്ധയോടെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ പല സ്രോതസ്സിലെയും ആശ്രിതത്വം വഴി ആണ് ഇത് വേറെ ഏതെങ്കിലും ഘടകത്തിലെ കറണ്ടോ വോൾടേജോ ആയ പരിവര്ത്തന വസ്തു ആകാം കാരണം ഈ ആശ്രിതത്വം കാരണം സ്രോതസ്സ് പരിവർത്തനം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ സ്രോതസ്സ് പരിവർത്തനം ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് പ്രവാഹത്തിൽ ആശ്രിതത്വം കാണുകയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് നമുക്ക് സ്രോതസ്സ് പരിവർത്തനത്തിന് കണക്കാക്കുവാൻ സാധിക്കുകയില്ല ഇതാണ് ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് മുന്നത്തെ കേസിലെ പോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള ഈ സർക്യൂട്ട് നോക്കാം ഈ കേസിലും നമുക്ക് സമ്പർക്കം തീർച്ചപ്പെടുത്താം അതായത് റസിസ്റ്റൻസ് R ആയിട്ട് വോൾട്ടേജ് സ്രോതസ്സ് സീരിസിൽ ആണെങ്കിൽ നമുക്ക് അതിനെ ഒരു റസിസ്റ്റൻസ് R കറണ്ട് സ്രോതസ്സ്നോഡ് പാരലൽ ആയി ചിത്രീകരിക്കാം ഈ കേസിൽ വോൾട്ടേജ് സ്രോതസ്സ് ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ആയിരിക്കും അതുപോലെതന്നെ കറണ്ട് സ്രോതസ്സ് ഒരു ആശ്രിത കറണ്ട് സ്രോതസ്സ് ആയിരിക്കും ഇവ തമ്മിലുള്ള ബന്ധം ഈ സ്രോതസ്സുകൾ തമ്മിലുള്ള ആശ്രിതത്വം ഊനം തട്ടാത്ത രീതിയിൽ വേണം ഉറപ്പിക്കുവാൻ സ്റ്റാർ ഡെൽറ്റ പരിവർത്തനത്തിലെ പോലെ സ്രോതസ്സ് പരിവർത്തനം സർക്യൂട്ടിലെ ബാക്കി ഭാഗങ്ങളെ ബാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ഇത് സർക്യൂട്ടിലെ ഒരു പ്രത്യേക ഭാഗത്തിൽ പ്രയോഗിക്കാം പക്ഷേ ഇത് സർക്യൂട്ടിലെ ഭാക്കി ഭാഗത്തെ ബാധിക്കുകയില്ല സ്രോതസ്സ് പരിവർത്തനം ശക്തിമത്തായ ആയുധമാണ് സർക്യൂട്ട്നെ വിശകലനം ചെയ്യുവാൻ അതിൽ ഉപായങ്ങൾ ഉൾപ്പെടുത്താൻ സഹായിക്കുന്നവയാണ് എവിടെയെങ്കിലും സ്രോതസ്സ് പരിവർത്തനത്തിന് സാധ്യത കാണുകയാണെങ്കിൽ അത് പ്രയോഗിച്ച് സർക്യൂട്ട് ലളിതമാക്കുക ഇനി സ്രോതസ്സ് പരിവർത്തനം കൈകാര്യം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് കറണ്ട് സ്രോതസ്സിൻറെ ദിശ വോൾട്ടേജ് സ്രോതസ്സിൻറെ പോസിറ്റീവ് ടെർമിനലിൻറെ നേരേ ആയിരിക്കണം വോൾട്ടേജ് സ്രോതസ്സിൻറെ കേസിൽ R പൂജ്യത്തിനോട് സമം ആണെങ്കിൽ സ്രോതസ്സ് പരിവർത്തനം പ്രയോഗിക്കുവാൻ സാധ്യമല്ല നമ്മൾ R പൂജ്യത്തിനോട് സമം ആക്കിയാൽ അത് ഒരു മാതൃകാപരമായ വോൾട്ടേജ് സ്രോതസ്സ് ആകും R അനന്തതയോട് സമം ആക്കിയാൽ അത് ഒരു മാതൃകാപരമായ കറണ്ട് സ്രോതസ്സ് ആകും മാതൃകാപരമായ വോൾട്ടേജ് സ്രോതസ്സോ മാതൃകാപരമായ കറണ്ട് സ്രോതസ്സോ പരിവർത്തനം ചെയ്യാൻ കറണ്ട് വോൾട്ടേജിൽ നിന്നോ വോൾടേജ് കറണ്ടിൽ നിന്നോ സാധിക്കുകയില്ല അതുകൊണ്ട് കറണ്ട് അഥവാ വോൾട്ടേജ് സ്രോതസ്സ് പരിവർത്തനം ചെയ്യുമ്പോൾ ഇതും നമ്മൾ മനസ്സിൽ വെക്കണം എന്തുകൊണ്ട് എന്നുവെച്ചാൽ മാതൃകാപരമായ കറണ്ട് സ്രോതസ്സ് നമുക്ക് എന്തെങ്കിലും ഒരു അനന്തമായ വോൾട്ടേജ് സ്രോതസ്സും ആയി പകരം വെക്കുവാൻ സാധ്യമല്ല ഇത് എന്തുകൊണ്ടെന്നാൽ വോൾട്ടേജ് അഥവാ കറണ്ട് സ്രോതസ്സ് മാതൃകാപരമായി ഇരിക്കുമ്പോൾ ഇത് ബാധകമല്ല സ്രോതസ്സ് പരിവർത്തനം മനസ്സിലാക്കുവാൻ ഒരു ഉദാഹരണമെടുക്കാം ഉദാഹരണത്തിന് സർക്യൂട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് കരുതുക എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു 8 ഓമിന് കുറുകെയുള്ള വോൾടേജ് കണ്ടുപിടിക്കാൻ ഇത് എങ്ങനെ പരിഹരിക്കും നമുക്ക് ആദ്യത്തെ ഭാഗം എടുക്കാം നമുക്ക് പറയാം ഇതാണ് ടെർമിനൽ a ഇതാണ് ടെർമിനൽ b എന്നിട്ട് ഈ ടെർമിനലിൻറെ ഇടതുവശത്തു ഒരു കറണ്ട് സ്രോതസ്സും കൂടാതെ അതിനോട് പാരലൽ ആയി ഒരു റെസിസ്റ്റൻസ്സും അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിനോട് സാമ്യമുള്ളതാണ് അതായത് ഈ കറണ്ട് സ്രോതസ്സും ആണ് റെസിസ്റ്ററിനോട് പാരലൽ ആയിട്ടുള്ള മാതൃകാപരമായ സ്ഥാനാർത്ഥി ഇതാണ് പരിവർത്തനം ചെയ്യേണ്ടത് വോൾട്ടേജ് സ്രോതസ്സുസായി സീരീസ് റസിസ്റ്റൻസിൽ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ൻറെ മൂല്യം ഇത് 12 വോൾട് ആകും അപ്പോൾ നിങ്ങൾക്ക് വോൾട്ടേജ്ൻറെ മൂല്യം കിട്ടി ഇതിൻറെ ധ്രുവത്വം എന്തായിരിക്കണം കറണ്ട് താഴോട്ട് ആയതിനാൽ ധ്രുവത്വം സങ്കലനചിഹ്നം ആയിരിക്കും എന്തായിരിക്കും റസ്റ്റൻറ്സ്ൻറെ മൂല്യം റെസിസ്റ്റൻസ്ൻറെ മൂല്യം മാറുകയില്ല പക്ഷേ അതിപ്പോൾ സീരീസ് ആയിരിക്കും അപ്പോൾ ab ക്ക് കുറുകെ നമ്മുടെ നവീകരിച്ച സർക്യൂട്ട് ഇങ്ങനെ ആയിരിക്കും അടുത്തത് നിങ്ങൾക്ക് കാണാം 4 ഓം ഉം ഓം 2 ഓം റെസിസ്റ്റൻസ്സും സീരിസ് ആയിട്ട് ഇരിക്കുന്നത് അതിനാൽ ഇവ രണ്ടും നിങ്ങൾക്ക് ഒരുമിപ്പിക്കാം അങ്ങനെ ഇതുപോലത്തെ സർക്യൂട്ട് കിട്ടും അവിടെ വോൾടേജ് സ്രോതസ്സ് 6 ഓം റെസിസ്റ്റർ ആയിട്ട് സീരീസിൽ ആണ് ഇരിക്കുന്നത് കൂടാതെ 8 ഓം റെസിസ്റ്റൻസ്സും ഉണ്ട് അപ്പോൾ ഇതിന് കുറുകെയുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം കൂടാതെ ബാക്കിയുള്ള സർക്യൂട്ട് ഭാഗത്തിൻറെ അതായത് 3 ഓം റെസിസ്റ്റൻസ്സും 4 ആമ്പിയർ കറൻറ് സ്രോതസ്സും ഉള്ളിടത്ത് ഇനി നിങ്ങൾ നോക്കിയാൽ കാണാം ഇത് പിന്നെയും കറണ്ട് സ്രോതസ്സസിലേക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതാണ് കാരണം ഇവിടെ കാണാം 6 ഓം ആയിട്ട് 12 വോൾട് വോൾടേജ് സ്രോതസ്സ് സീരിസിൽ ആണെന്ന് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വളരെ ലളിതമായി വോൾട്ടജിനെ കറണ്ടിലേക് പരിവർത്തനം ചെയ്യും അതായത് 6 ഓം റെസിസ്റ്ററിനു സീരീസ് ആയിട്ടുള്ള വോൾടേജ് 2 ആംപിയർ കറണ്ടിനു തുല്യമാണ് എന്നിട്ട് ഒരു റെസിസ്റ്റർ പാരലൽ ആയി ഉണ്ടാകും അതാണ് 6 ഓം റെസിസ്റ്റൻസ് ഇപ്പോൾ നമുക്ക് നവീകരിച്ച സർക്യൂട്ട് കിട്ടി ഇതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാണാം രണ്ട് കറണ്ട് സ്രോതസ്സ് പാരലൽ ആയിട്ടും മൂന്ന് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടും ഉണ്ടെന്ന് ഈ രണ്ട് കറണ്ട് സ്രോതസ്സുകളും രണ്ട് റെസിസ്റ്റൻസും നമുക്ക് കൂട്ടിച്ചേർക്കാം പക്ഷെ ഈ റെസിസ്റ്റൻസ് കേട് പറ്റാതെ നിലനിർത്തണം ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 8 ഓമിൻറെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് ഉണ്ട് ഇപ്പോൾ എന്ത് സംഭവിക്കും രണ്ട് ആംപിയർ കറണ്ട് 4 ആംപിയർ കറണ്ട് സ്രോതസ്സുകളും തമ്മിൽ കൂട്ടി ചേർത്താൽ നമുക്ക് അവസാനം 2 ആംപിയർ കറണ്ട് സ്രോതസ്സ് കിട്ടും 6 ഓം റെസിസ്റ്റൻസും 3 ഓം റെസിസ്റ്റൻസും കൂട്ടി ചേർത്താൽ നമുക്ക് അവസാനം 2 ഓം റെസിസ്റ്റൻസ് കിട്ടും അവസാനം നമുക്ക് വളരെ ലളിതമായ ഒരു സർക്യൂട്ട് കിട്ടും ഇതിൽ 2 ആംപിയർ കറണ്ട് സ്രോതസ്സ്സും 2 ഓം റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടും കൂടാതെ 8 ഓം റെസിസ്റ്റൻസിനു കുറുകെ നമ്മൾ വോൾടേജ്കണ്ടുപിടിക്കണം വളരെ ലളിതമായി കറണ്ട് ഡിവിഷൻ ഉപയോഗിക്കു 8 ഓം റെസിസ്റ്ററിന് കുറുകെ ഉള്ള കറണ്ട് ലഭിക്കും അതായത് 0 4 ആംപിയർ ഇനി വോൾടേജ് വേറൊന്നുമല്ല പക്ഷെ 8 ഗുണീഭവികുക ഇതിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ആയിട്ട് ഇപ്പോൾ നമുക്ക് 3 2 വോൾട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കാണാം ഇതിനു കുറുകെ ഉള്ള വോൾടേജ് ഇതുതന്നെ ആയിരിക്കും അതിനാൽ നമുക്ക് ഇവയെ ഒരുമിപ്പിക്കാം എന്നിട്ട് വോൾടേജ് കണ്ടുപിടിക്കാം എന്നിട്ട് ഈ രണ്ട് കേസിലും നമുക്ക് ഒരേ വോൾടേജ് തന്നെ കിട്ടും ഇനി നമുക്ക് കുറച്ചു കൂടി സങ്കീർണമായ സർക്യൂട്ട് നോക്കാം ആശ്രിത കറണ്ട് സ്രോതസ്സ് ഉള്ള ഒരു സർക്യൂട്ട് എങ്ങനെ നമുക്ക് സ്രോതസ്സ് പരിവർത്തനം ഈ കേസിൽ ഉപയോഗിക്കാം നമ്മൾ സർക്യൂട്ട്ൻറെ ഈ പ്രത്യേക ഭാഗം കാണുന്നു ഈ ടെർമിനൽ എ യും ബി യും എന്ന് പറയുകയാണെങ്കിൽ ഇത് 4 ഓം റേസിസിറ്റർ ആയിട്ട് പാരലൽ ആയിട്ടുള്ള ഒരു കറണ്ട് സ്രോതസ്സാണ് അതിനാൽ ഇത് തുല്യമായ ഒരു വോൾട്ടേജ് സ്രോതസ്സ് ആയിട്ട് രൂപാന്തരപ്പെടുത്താം കൂടാതെ 4 ഓം റെസിസിറ്റർ ആയിട്ട് സീരീസും ആക്കാം ഇതിനെ ഗുണിച്ചാൽ നമുക്ക് കിട്ടും അതായത് 4 ഓം റെസിസിറ്റർ ആയിട്ട് സീരിസിൽ ഇനി നമുക്ക് 2 ഓം റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾടേജ് കണ്ടുപിടിക്കണം ഇനി 2 ഓം റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾടേജ്നെ ആശ്രയിച്ചു ഇരിക്കും വോൾട്ടേജ് സ്രോതസ്സിനെ മൂല്യം അതിനെ ആശ്രയിച്ചിരിക്കും കുറുകെയുള്ള വോൾട്ടേജ് അതിനാൽ ഇതിനെ നമുക്ക് വേറെ ഒരു പരിവർത്തനത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല നമുക്ക് ഇങ്ങനെ തന്നെ സർക്യൂട്ടിൽ ഇതിനെ വെക്കണം ബാക്കി പരിവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം ഇനി ഈ ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ ഇതിനെ ഇനിയും വോൾട്ടേജ് സ്രോതസ്സായി രൂപാന്തരപ്പെടുത്തതാം ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി 1 ഓം ആയിട്ട് 3 വോൾട് സീരിസിൽ എന്തുകൊണ്ടെന്നാൽ പാരലൽ R നോഡ് 3 അമ്പയർ പാരലൽ ആയത്കൊണ്ട് ഇതിനെ രണ്ടിനെയും ഒന്നിപ്പിച്ചാലും വോൾടേജ് ന് മാറ്റം വരില്ല എന്തുകൊണ്ടെന്നാൽ ഒരേ വോൾടേജ് തന്നെയാണ് ഇതുരണ്ടും പങ്കിടുന്നത് എന്തുകൊണ്ടെന്നാൽ 2 ഓമിന് കുറുകെയുള്ള വോൾട്ടേജ് നോക്കുക ഈ കേസിൽ വോൾട്ടേജ് നമ്മൾ അവയെ കൂട്ടിച്ചേർത്താലും അതുപോലെതന്നെ നിലനിൽക്കും അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് ഇവയെ രണ്ടും കൂട്ടിച്ചേർക്കുക ഇതായിരിക്കും നമുക്ക് ആശയം മനസ്സിലാക്കുവാൻ എളുപ്പം അല്ലാതെ ഇവിടെ 2 ഓം റെസിസ്റ്റർ അങ്ങനെ തന്നെ വെച്ചാൽ നമുക്ക് 2 റെസിസ്റ്റൻസ് പാരലൽ ആയി ഉണ്ടാകും അതിനാൽ നമ്മൾ ഇവ രണ്ടും കൂട്ടിച്ചേർക്കും പക്ഷേ നമുക്കറിയാം വോൾടേജ് ഇവിടെ അതുപോലെതന്നെ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ആ കൂട്ടുകെട്ട് എടുക്കാം ഇപ്പോൾ നമുക്ക് 1 ഓം റെസിസ്റ്റൻസ് തുല്യമായി ഉണ്ട് കൂടാതെ ഒരു 3 ആംപിയർ കറണ്ട് സ്രോതസ്സും ഉണ്ട് അപ്പോൾ സ്രോതസ്സ് പരിവർത്തനം ചെയ്യുമ്പോൾ ഈ 1 ഓം 2 ഓം ആയി അവസാനം ഇവ രണ്ടിനെയും കൂട്ടിച്ചേർത്തത് മൂലം 3 ആംപിയർ പാരലൽ ആയും ഉണ്ട് അപ്പോൾ സ്രോതസ്സ് പരിവർത്തനത്തിന് ശേഷം എന്താണ് നമുക്ക് എന്ത് കിട്ടും 1 ഓം 3 വോൾട് ആയിട്ട് സീരീസിൽ കിട്ടും എന്നിട്ട് നമുക്ക് അത് തന്നെ കിട്ടും അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് 4 ഓം ആയിട്ട് സീരിസിൽ ഉണ്ട് കൂടാതെ 18 വോൾട് നമുക്ക് സർക്യൂട്ടിൽ ഉണ്ട് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തതാണ് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഇതാണ് ചോദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ൻറെ മൂല്യം അതിനാൽ നമ്മൾ ഇപ്പോൾ പരിവർത്തനത്തിന് ഓക്കേ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മെഷ് വിശകലനം ഉപയോഗിക്കണം കൂടാതെ കിർച്ചഹോഫ് വോൾട്ടേജ് ലോയും വലിയ ലൂപ്പിനു കുറുകെ ഉപയോഗിക്കണം അതിനാൽ നമുക്ക് കിട്ടും ഇവിടുത്തെ ചോദ്യം ഇവിടെ നമുക്ക് 2 അജ്ഞാതമായ പരിവർത്തിതവസ്തുക്കൾ ഉണ്ട് പക്ഷെ ഒരു സമവാക്യമേ ഉള്ളു അപ്പോൾ എവിടെ നിന്ന് നമുക്ക് ഈ രണ്ടാമത്തെ സമവാക്യം കിട്ടും നമ്മൾ ഈ രണ്ട് ടെർമിനലുകൾക്ക് കുറുകെ വോൾട്ടേജ് കാണുകയാണെങ്കിൽ എന്തായിരിക്കും ന്റെ മൂല്യം മറ്റൊന്നുമല്ല പക്ഷേ നമുക്ക് അറിയാവുന്നതുപോലെ 1 ഓമിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് i അതായത് നമ്മൾ കണക്കാക്കിയ ആദ്യത്തെലൂപ്പിലേത് നമുക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് നിർണ്ണയിക്കാം ഈ മൂല്യം മുകളിലത്തെ സമവാക്യത്തിൽ ഇട്ടുകൊടുത്തിട്ടു ലളിതമാക്കിയിട്ട് കറണ്ട് കിട്ടും A V ഇനി ചില പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുവെച്ചാൽ പ്രായോഗികമായ സ്രോതസ്സ് പരിവർത്തനം ഈ കാര്യങ്ങൾ മനസ്സിൽ വച്ച് പരിഗണിക്കേണ്ടതാണ് ആദ്യത്തേത് എന്താണെന്ന് വെച്ചാൽ ഒരു വോൾട്ടേജ് സ്രോതസ്സ് പരിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യം ആദ്യം ഈ സ്രോതസ്സുകൾ റെസിസ്റ്ററുമായി സീരിസിൽ ആണെന്നുള്ളതാണ് ഉദാഹരണത്തിന് ഈ താഴെ കൊടുത്തിട്ടുള്ള സർക്യൂട്ട് നോക്കിയാൽ പരിപൂർണ്ണമായി ഇത് സ്രോതസ്സ് പരിവർത്തനം ചെയ്യാൻ പറ്റുന്നതാണ് വോൾട്ടേജ് സ്രോതസ്സ്സിലേക്കും ഇത് 10 ഓം റെസിസ്റ്ററുമായി സീരീസിലും ആയിട്ട് ഇപ്പോൾ ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താം പക്ഷേ ഇതേ സ്രോതസ്സ് പരിവർത്തനം തന്നെ നമുക്ക് പ്രയോഗിക്കുവാൻ സാധിക്കുകയില്ല ഈ രണ്ട് ഘടകങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അതായത് 6 വോൾട്ടും 30 ഓമും എന്തുകൊണ്ടെന്നാൽ ഈ 60 വോൾട് സ്രോതസ്സ് 30 ഓം ആയിട്ട് സീരീസിൽ അല്ല അതായത് നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെ ശരിയായ സ്ഥാനാർത്ഥിയെ സ്രോതസ്സ് പരിവർത്തനത്തിന് തിരഞ്ഞെടുക്കാം എന്നാണ് ചിലപ്പോൾ നമ്മൾ സ്രോതസ്സ് പരിവർത്തനം ചെയ്യുമ്പോൾ വരുന്ന പൊതുവായുള്ള ഒരു തരം തെറ്റാണ് ഇത് ഇനി എന്താണ് എന്ന് വെച്ചാൽ ഇത് പോലെ തന്നെ കറണ്ട് പരിവർത്തനം ചെയുമ്പോൾ നമ്മൾ ഇപ്പോഴും ഉറപ്പ് വരുത്തേണ്ടത് ആണ് കറണ്ട് സ്രോതസിനു ഒരു റെസിസ്റ്റൻസ് എങ്കിലും പാരലൽ ഉണ്ടോ എന്നത് സർക്യൂട്ട് എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പില്ലെങ്കിൽ സർക്യൂട്ട് ഇവിടെ ചെറുതായിട്ട് മാറ്റം വരുത്താം ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ഓം റെസിസ്റ്റർ ആയിട്ട് 1 ആംപിയർ കറണ്ട് സ്രോതസ്സ് പാരലൽ ആണെന്ന് അതിനാൽ ഈ സർക്യൂട്ട് ഈ രീതിയിൽ വീണ്ടും വരയ്ക്കാം അതിനാൽ നമുക്ക് എളുപ്പത്തിൽ കാണാം ഇവിടെ 3 ഓം റെസിസ്റ്റർ ആയിട്ട് 1ആംപിയർ കറണ്ട് സ്രോതസ്സ് പാരലൽ ആണെന്ന് ഇനി ഉറപ്പായതിനുശേഷം സ്രോതസ്സ് പരിവർത്തനം പ്രയോഗിച്ച മൂല്യം നിർണയിക്കുക ഈ കേസിൽ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് 3 ഓം റെസിസ്റ്റർ ആയിട്ട് 3 വോൾടേജ് സ്രോതസ്സ് പാരലൽ ആയി കിട്ടിയിട്ടുണ്ട് അതിനാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വോൾട്ടേജ് സ്രോതസ്സ് മുകളിൽ ഇടാം അല്ലെങ്കിൽ താഴെ ഇടാം കാരണം സ്ഥിതി സ്ഥാപനത്തിന് ഇവിടെ വലിയ പ്രാധാന്യം ഇല്ല അതിനാൽ ഇത് രണ്ടും ഒരുപോലെയാണ് താഴെ ഇടുകയാണെങ്കിലും മുകളിൽ ഇടുകയാണെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരേയൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുവെച്ചാൽ കറണ്ടിൻറെ ദിശ വോൾടേജ് സ്രോതസ്സ്സിൻറെ ധ്രുവത്വത്തെകുറിച്ചു നമുക്കു അറിവ് തരും ഇനി നമുക്ക് ചുരുക്കത്തിൽ എന്തു പറയാം സ്രോതസ്സ് പരിവർത്തനത്തിൻറെ പൊതുവായ ലക്ഷ്യം എന്താണെന്നുവെച്ചാൽ ഒന്നെങ്കിൽ കറണ്ട് സ്രോതസ്സുകളും ആയി സർക്യൂട്ട് അവസാനിക്കണം അല്ലെങ്കിൽ വോൾട്ടേജ് സ്രോതസ്സുകളും ആയി സർക്യൂട്ട് അവസാനിക്കണം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നോഡൽ അല്ലെങ്കിൽ മെഷ് വിശകലനം പ്രയോഗിക്കുവാൻ സാധിക്കും സ്രോതസ്സ് പരിവർത്തനം ആവർത്തിക്കൽ വഴി റെസിസ്റ്ററുകളെയെയും സ്രോതസ്സുകളെയും ഒരുമിപ്പിച്ചു സർക്യൂട്ട് ലഘൂകരിക്കാം റെസിസ്റ്റർൻറെ മൂല്യം സ്രോതസ്സ് പരിവർത്തന സമയത്ത് മാറുകയില്ല ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടത് പക്ഷേ റെസിസ്റ്ററിൻറെ കാര്യത്തിൽ അങ്ങനെയല്ല അതായത് ഇത് കറണ്ടൊ വോൾട്ടജോ യഥാർത്ഥ റെസിസ്റ്ററുമായി സഹവർത്തിച്ചിട്ടുള്ളത് അപ്രാപ്യമായി നഷ്ടപ്പെട്ടു പോകും നമ്മൾ ചെയ്യുന്ന പരിവർത്തനങ്ങള്ളിൽ 3 ഓം റെസിസ്റ്റൻസ് നമുക്ക് അതേ ഔട്ട്പുട്ട് തരികയില്ല അതായത് 3 ഓം റെസിസ്റ്റർൻറെ സ്ഥാനം മാറിയിട്ടുണ്ട് അതുവഴി നമുക്ക് പറയാം റെസിസ്റ്ററിൻറെ മൂല്യം അത് തന്നെയാണെന്ന് പക്ഷേ അതിൻറെ സഹവർത്തനം അപ്രാപ്യമായിട്ടുണ്ട് അതായത് റെസിസ്റ്റർൻറെ ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു കിട്ടാൻ സാധിക്കുകയില്ല സർക്യൂട്ട് അതിൻറെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറാത്തിടത്തോളം റെസിസ്റ്ററിൻറെ മൂല്യം അത് തന്നെയായിരിക്കും പക്ഷേ അതിൻറെ സഹവർത്തനം മാറിയിട്ടുണ്ട് ഇനി ഈ റെസിസ്റ്ററുമായി സഹവർത്തിച്ചിട്ടുള്ള കറണ്ടൊ വോൾടേജ്ജോ ആണ് നിയന്ത്രിക്കുന്ന പരിവർത്തിതവസ്തു ആയിട്ട് ഉപയോഗിക്കുന്നത് ആ കേസിൽ ഒരു സ്രോതസ്സു പ്രവർത്തനത്തിനും ഉൾപെടുത്തരുത് ആ കേസിൽ യഥാർത്ഥ റെസിസ്റ്റർ നമ്മൾ നിലനിർത്തണം അതിനാൽ അന്തിമ സർക്യൂട്ട് നമ്മൾ കാര്യക്രമം ചെയുമ്പോൾ കറണ്ട്നേയും വോൾട്ടേജ്നേയും കുറിച്ചുള്ള അറിവ് കൊണ്ട് നമ്മൾ പരിവർത്തന വസ്തുവിനെ മൂല്യം നിർണയിക്കുമ്പോൾ ഇപ്പോൾ ആശ്രിത സ്രോതസ്സ് ഘടകം തൊട്ടിട്ടില്ല അതിനാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ആശ്രിത കറണ്ട് സ്രോതസ്സ്സോ ആശ്രിത വോൾടേജ് സ്രോതസ്സ്സോ നോക്കി കാണുമ്പോൾ ഒരു റെസിസ്റ്ററിനു കുറുകെ ഉള്ള കറണ്ടിൻറെ മൂല്യം അല്ലെങ്കിൽ വോൾട്ടാഗിൻറെ മൂല്യം സ്രോതസിൻറെ മൂല്യത്തെ ആശ്രിയിച്ചു ഇരിക്കും അത് ഘടകത്തെ ആശ്രിയിച്ചും ഇരിക്കും അതിനാൽ ഈ ഘടകങ്ങൾ എല്ലാം നമ്മൾ തൊടില്ല ഈ ഘടകവുമായി സഹവർത്തിച്ചിരിക്കുന്ന വോൾടേജ്ജോ കറണ്ടൊ താൽപര്യപ്പെടുന്നത് ആ ഘടകം ഏതൊരു സ്രോതസ്സു പരിവർത്തനത്തിനും ഉൾപ്പെടരുത് എന്നാണു ഒരു ആശ്രിത വോൾടേജ് സ്രോതസ്സുസോ കറണ്ട് സ്രോതസ്സുസോ ഇല്ലെങ്കിൽകൂടി ഈ ഘടകം നമ്മൾ സ്രോതസ്സു പരിവർത്തനത്തിന് ഉപയോഗിക്കില്ല സ്രോതസ്സ് പരിവർത്തനത്തിൻറെ കാര്യത്തിൽ കറണ്ട് സ്രോതസ്സ് നയിക്കുന്ന സൂചിനാമ്പ് വോൾടേജ് സ്രോതസ്സ്സിൻറെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് യോജിച്ചിരിക്കുന്നു അപ്പോൾ കറണ്ട് വോൾടേജ് സ്രോതസ്സ്ലേക്കും വോൾടേജ് കറണ്ട് സ്രോതസ്സ്ലേക്കും പരിവർത്തനം ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടത് കൂടാതെ റെസിസ്റ്ററിനു ആവശ്യമായിട്ടുള്ളത് 2 ഘടകങ്ങളും പാരലൽ ആയിരിക്കണം എന്നും സ്രോതസ്സ് പരിവർത്തനത്തിൽ വോൾടേജ് സ്രോതസ്സസിനു ആവശ്യമായിട്ടുള്ളത് വോൾടേജ് സ്രോതസ്സസിനു സീരീസ് ആയിട്ട് റെസിസ്റ്റർ വേണം എന്നാണ് അതിനാൽ നമ്മൾ ചർച്ച ചെയ്തത് എല്ലാം അതായത് വോൾടേജ്ജോ കറണ്ടൊ പരിവർത്തനം ചെയുമ്പോൾ മനസ്സിൽ കരുതണം അപ്പോൾ ഇത് വെച്ച് ഇന്നത്തെ സെഷൻ നിർത്തുന്നു അടുത്ത സെഷനിൽ നമ്മൾ ചില ആവേശമുണർത്തുന്ന ആശയങ്ങൾ ചർച്ചചെയുന്നത് ആണ്